എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള ഈ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ 3 ആഴ്ചകളായി നിങ്ങൾ ഈ കോഴ്സ് ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ കോഴ്സിന്റെ നാലാം ആഴ്ചയിലാണ് ഈ ആഴ്ച ഞാൻ ആശയവിനിമയ വൈദഗ്ധ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു പിന്നെ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട നാല് പ്രധാന കഴിവുകൾ വാസ്തവത്തിൽ ആശയവിനിമയ വൈദഗ്ധ്യവും സോഫ്റ്റ് സ്കിൽസും ഒന്നുതന്നെയാണെന്ന തെറ്റിദ്ധാരണയാണ് ആളുകൾക്കുള്ളത് എന്നാൽ ആശയവിനിമയ വൈദഗ്ദ്ധ്യം യഥാർത്ഥത്തിൽ സോഫ്റ്റ് സ്കിൽസിന്റെ ഒരു പ്രധാന അവിഭാജ്യ ഘടകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആശയവിനിമയ വൈദഗ്ധ്യത്തോടൊപ്പം അല്ലെങ്കിൽ ആശയവിനിമയ വൈദഗ്ധ്യത്തിന്റെ നഷ്ടമായ ഭാഗമായി കാണാൻ കഴിയും അത് നമ്മൾ സാധാരണയായി അവഗണിക്കുന്നു അതിനാൽ അത് സോഫ്റ്റ് സ്കിൽസിനും തുല്യമാണ് എന്നാൽ സോഫ്റ്റ് സ്കിൽസ് ഒരു വലിയ സെറ്റാണ് എന്നാൽ ആശയവിനിമയ വൈദഗ്ദ്ധ്യം എന്ന് നമ്മൾ വിളിക്കുന്നതും വളരെ പ്രധാനമാണ് എന്നാൽ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം നിങ്ങൾക്ക് എങ്ങനെ മോശം ശീലങ്ങൾ തകർക്കാനും നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താനും കഴിയുമെന്ന് എടുത്തുകാണിച്ചുകൊണ്ട് ഞാൻ അവസാന പ്രഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച മുഴുവൻ ശീലങ്ങളെക്കുറിച്ചായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മോശം ശീലങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവ നീക്കം ചെയ്യാൻ ശ്രമിക്കുക അവ നല്ല ശീലങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരംഭിച്ച അതേ വഴിയിൽ അവ നിർത്തണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു അപ്പോൾ മോശം ശീലങ്ങൾ തകർക്കുന്നത് നിങ്ങൾ എങ്ങനെ നിർത്തും നിങ്ങൾ അത് ആരംഭിച്ച രീതിയെക്കുറിച്ച് ചിന്തിക്കുക തുടർന്ന് നിങ്ങൾ തകർക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇത് ആരംഭിച്ചത് നിങ്ങൾ ചെറിയ അളവിൽ തുടങ്ങി ചെറിയ ബിറ്റുകളിൽ ആരംഭിച്ചു അതിനാൽ നിങ്ങൾ ആവൃത്തി കുറയ്ക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒരു മോശം ശീലം എത്ര തവണ ഉപയോഗിക്കുന്നു തുടർന്ന് വിടവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അതിനാൽ നിങ്ങൾ പുകവലിക്ക് അടിമകളാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ നൽകുന്നത് അത് ഒരു ചെയിൻ പുകവലിക്കാരൻ എന്ന നിലയിൽ അതിനാൽ അളവ് കുറയ്ക്കുകയും തുടർന്ന് വിടവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക അതായത് ദൈനംദിനം എന്നതിനുപകരം ദിവസങ്ങൾ മാറിമാറി ചെയ്യുക പിന്നെ 2 ദിവസം 3 ദിവസം 5 ദിവസം ഒരു ആഴ്ചയുടെ ഇടവേള തുടങ്ങിയവയ്ക്ക് ശേഷം ഞാൻ എടുത്തുപറഞ്ഞ മറ്റൊരു കാര്യം ഒരു മോശം ശീലത്തിന് പകരം ഒരു നല്ല ശീലം ഉണ്ടാക്കാനും നല്ല ശീലങ്ങൾ എങ്ങനെ വികസിപ്പിക്കാം എന്നതിനും നിങ്ങൾ ശ്രമിക്കണം എന്നതാണ് അതിനാൽ നല്ല ശീലങ്ങൾ പരിശീലിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിനെയും മനസ്സിനെയും സ്വതന്ത്രമാക്കുകയും ഒരു ജോലിയും പൂർത്തിയാകാതെ വിടാതിരിക്കുകയും ചെയ്യും അതിനാൽ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഈ സിഗാർനിക് സ് igarnic ഇഫക്റ്റിനെക്കുറിച്ച് സംസാരിച്ചു അവിടെ നിങ്ങൾ പൂർത്തിയാകാത്ത എന്തെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ ചിന്തകൾ വന്ന് നിങ്ങളെ വേട്ടയാടും അതിനാൽ പൂർത്തിയാകാത്ത ജോലി നിങ്ങളുടെ തലച്ചോറിൽ ഭാരമായി കിടക്കും ഇത് പുതിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും നിങ്ങൾക്ക് ഇടം കുറയ്ക്കും നല്ല ശീലങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാന കാര്യം ആദ്യം സീരിയൽ അഡിക്ടാകുന്നത് ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ എന്തെങ്കിലും സീരിയലായി വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വളരെ അപകടകരമായ എന്തെങ്കിലും സീരിയലായി കാണുകയാണെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളുടെ സമയത്തിന്റെ കാര്യത്തിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിന്റെ കാര്യത്തിലും നിങ്ങളെ കൊല്ലുന്ന ടെലിവിഷൻ മെറ്റീരിയലുകൾ കാരണം അവ നിങ്ങളുടെ തലച്ചോറിൽ വളരെയധികം തൂങ്ങിക്കിടക്കുന്നു സിഗാർനിക് ഇഫക്റ്റിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് അവയാണ് നിങ്ങൾ പൂർത്തിയാകുന്നതുവരെ അവ നിങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല അതിന് 2 വർഷവും 3 വർഷവും എടുത്തേക്കാം തുടർന്ന് അത് അവിടെ തന്നെ തുടരും ഇപ്പോൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ സംസാരിച്ച മറ്റൊരു പ്രധാന കാര്യം നല്ല ശീലങ്ങളും വിജയവും വേർതിരിക്കാനാവാത്തതാണ് എന്നതാണ് വിജയത്തിന്റെ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന് നിങ്ങൾ ആദ്യം ധാരാളം നല്ല ശീലങ്ങൾ പരിശീലിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഏത് ജോലിയിലും നിങ്ങളെ ഒഴിച്ചുകൂടാനാവാത്തതും മാറ്റാനാവാത്തതുമാക്കുന്നത് നല്ല ശീലങ്ങളാണ് വളരെ വിജയകരമായ ആളുകളുടെ ചില ശീലങ്ങൾ നിങ്ങളിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് വളരെ കഠിനാധ്വാനിയായിരിക്കുക നിങ്ങൾക്ക് ശമ്പളം ലഭിച്ചില്ലെങ്കിൽപ്പോലും പുഞ്ചിരിയോടെ അധിക ജോലി ചെയ്യുക നിങ്ങളുടെ വാച്ചിലേക്കു നോക്കികൊണ്ട് ഒരിക്കലും ജോലി ചെയ്യരുത് തുടർന്ന് നിങ്ങൾ അത് പൂർത്തിയാക്കുന്നതുവരെ ജോലി ചെയ്യുക തുടർന്ന് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും ആ രാത്രി നിങ്ങൾക്ക് വളരെ സമാധാനത്തോടെ കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരിക്കലും പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത് ഉപയോഗശൂന്യമായ ജോലി വളരെ സൂക്ഷ്മമായി ചെയ്യുന്നതിൽ അർത്ഥമില്ല അവസാനമായി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ 100 ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ഏത് ജോലിയും പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഏകാഗ്രതയുടെ ശക്തി ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ചില പുതിയ ശീലങ്ങളും നല്ല ശീലങ്ങളും വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സോഫ്റ്റ് സ്കിൽസിന്റെ മറ്റൊരു പ്രധാന ഭാഗം ആശയവിനിമയ വൈദഗ്ധ്യത്തിന്റെ കാര്യത്തിൽ പരിഗണിക്കുന്നു ആശയവിനിമയം എന്താണെന്നും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ കഴിവുകൾ എന്താണെന്നും നമുക്ക് നോക്കാം ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുന്ന നിമിഷം അടിസ്ഥാനപരമായി നമ്മൾ വാക്കാലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നു നമ്മൾ ഇത് ഉപയോഗിക്കുന്നു ആശയവിനിമയം നടത്താൻ നിങ്ങൾ ചിത്രങ്ങൾ ആംഗ്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന വാക്കേതര ആശയവിനിമയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പ്രഭാഷണങ്ങൾ ചെലവഴിക്കും നിലവിൽ നമുക്ക് വാക്കാലുള്ള ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം വാക്കാലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാക്കാലുള്ള ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ നാല് അനുബന്ധ കഴിവുകളുണ്ട് അവ വായിക്കുക എഴുതുക സംസാരിക്കുക കേൾക്കുക എന്നിവയാണ് വാസ്തവത്തിൽ അത് കേൾക്കുന്നതിൽ നിന്ന് ആരംഭിച്ച് തുടർന്ന് വായിക്കുകയോ എഴുതുകയോ ചെയ്യുക എന്നതായിരിക്കണം എന്നാൽ ഏറ്റവും കുറഞ്ഞത് സംസാരിക്കുകയല്ല നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നതാണെന്നാണ് പക്ഷേ അത് ശരിയല്ല നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടി പോലും അത് പുറത്തുവരുന്നതിന് മുമ്പ് കേൾക്കാൻ തുടങ്ങുകയും പിന്നീട് പതുക്കെ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ നമ്മുടെ ആശയവിനിമയ വൈദഗ്ദ്ധ്യം വികസിപ്പിക്കുന്നതിൽ നാം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആദ്യത്തേതും പ്രധാനവുമായ നൈപുണ്യമാണ് കേൾക്കൽ അതിനാൽ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ കേൾക്കുക വായിക്കുക എഴുതുക സംസാരിക്കുക അവ വ്യത്യസ്ത കഴിവുകളാണെന്ന് തോന്നുമെങ്കിലും അവയെല്ലാം സംയോജിപ്പിച്ചിരിക്കുന്നു അവയിൽ നമുക്ക് കേൾക്കുന്നതും വായിക്കുന്നതും പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുകളായി കാണാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മൾ അവയെ മനസ്സിലാക്കാനുള്ള കഴിവുകളായി കാണുന്നത് കാരണം മിക്കപ്പോഴും നമ്മൾ ആരെയെങ്കിലും കേൾക്കാൻ ശ്രമിക്കുമ്പോഴോ എന്തെങ്കിലും വായിക്കുമ്പോഴോ നമ്മൾ മനസിലാക്കാൻ ശ്രമിക്കുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നു കേൾക്കുന്നു നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നു വായിക്കുന്നു ജീവിതം അനുഭവിച്ച ഒരാളിൽ നിന്ന് വായിക്കുന്നു തുടർന്ന് അവന്റെ അല്ലെങ്കിൽ അവളുടെ ചിന്തകൾ പങ്കിടുന്നു തുടർന്ന് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നു അതിനാൽ ഇരുവശവും അവർ മനസ്സിലാക്കുന്നു നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ മറുവശത്ത് എഴുതുന്നതും സംസാരിക്കുന്നതും ഉൽപ്പാദന വൈദഗ്ധ്യമായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് അവയെ ഉൽപ്പാദന വൈദഗ്ധ്യമായി കണക്കാക്കുന്നത് കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ നിങ്ങൾ നമ്മുടെ ശബ്ദം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ചില ശബ്ദങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ നമ്മൾ നിർമ്മിക്കാനും ശ്രമിക്കുന്നു നമ്മാൽ ശയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ വഴിനൽകാൻ ശ്രമിക്കുന്നു നമ്മുടെ ചിന്തകൾക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ആ അർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എഴുത്തിന്റെ കാര്യത്തിലും നമ്മൾ ചെയ്യുന്നത് അതുതന്നെയാണ് അതിനാൽ ഈ കഴിവുകളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് എഴുത്താണെന്ന് നിങ്ങൾക്കറിയാം ആളുകൾ ചിലപ്പോൾ ഒരൊറ്റ അടിക്കുറിപ്പ് ഒരു ആപ്തവാക്യം ഒരു വാചകം എന്നിവ എഴുതിയിട്ടുണ്ട് അത് ലോകത്തെ മാറ്റിമറിച്ചു ലോകത്തെ മാറ്റിമറിച്ച നോവലുകൾ വളരെ പ്രചോദനാത്മകവും പിന്നീട് ചിന്തോദ്ദീപകവും പിന്നീട് നിരവധി ആളുകളെ മാറ്റിമറിച്ചതുമായ ഉപന്യാസങ്ങൾ സംസാരിക്കുന്നതും എഴുതുന്നതും ഉൽപ്പാദന വൈദഗ്ധ്യമായി കണക്കാക്കാനുള്ള കാരണങ്ങൾ ഇവയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നതിന്റെ വശം നോക്കാം ആശയവിനിമയ കഴിവുകൾ സംയോജിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതു ഓർമ്മിക്കുക എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം നിങ്ങൾ കേൾക്കുന്നതും സംസാരിക്കുന്നതും നോക്കുകയാണെങ്കിൽ കേൾക്കുന്നതും സംസാരിക്കുന്നതും ഗ്രൂപ്പ് ചർച്ചകളിലൂടെയും തൊഴിൽ അഭിമുഖങ്ങളിലൂടെയും വിജയിക്കുന്നതിനുള്ള മികച്ച കഴിവുകളായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ അതിനെ ഒരു പ്രൊഫഷണൽ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്നാൽ കേൾക്കുന്നതും സംസാരിക്കുന്നതും വീണ്ടും ഏറ്റവും മികച്ച കഴിവുകളാണ് അവ വ്യക്തിപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ആവശ്യമാണ് നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് നിങ്ങൾ ഒരു നല്ല ശ്രോതാവും ഫലപ്രദമായ പ്രഭാഷകനുമായിരിക്കണം ഇപ്പോൾ ആശയവിനിമയം പരസ്പരം സംയോജിപ്പിച്ചിരിക്കുന്ന രീതി നോക്കുക ഒരാൾ എത്രത്തോളം വായിക്കുന്നുവോ അത്രത്തോളം ഒരാൾക്ക് അത് അറിയാൻ കഴിയും വായിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതിനുമുമ്പ് ലോകത്തെക്കുറിച്ച് അറിയാൻ കഴിയൂ അതിനാൽ നിങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് ശേഖരിക്കുകയും കൂടുതൽ അറിയുകയും ചെയ്യുന്നു ഒരാൾ കൂടുതൽ എഴുതുമ്പോൾ ഒരാൾ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതുന്നു നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ഒരു പ്രബന്ധം ഒരു റിപ്പോർട്ടിന്റെ രൂപത്തിൽ ഒരു പ്രോജക്റ്റിനെക്കുറിച്ച് നിങ്ങളുടെ തീസിസിനെക്കുറിച്ച് നിങ്ങളുടെ ആന്തരികതയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രബന്ധം ഒരു കവിതയുടെ രൂപത്തിലുള്ള വികാരങ്ങൾ ഒരു നോവലിന്റെ രൂപത്തിലുള്ള നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രസകരമായ ഒരു രൂപത്തിൽ വളരെ ഹ്രസ്വമായ അനുഭവം ചെറുകഥ അതിനാൽ ഒരാൾ കൂടുതൽ എഴുതുമ്പോൾ ഒരാൾ കൂടുതൽ പ്രതിഫലിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്നത് സ്വയം കണ്ടെത്തലിന്റെ ഒരു പ്രക്രിയയാണ് ഓരോ തവണയും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും എഴുതുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നു പക്ഷേ അപ്പോൾ നിങ്ങൾ എഴുത്ത് പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പോലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ മുഴുവൻ ശ്രേണിയുടെയും തുടക്കത്തിൽ ഞാൻ പറയുകയായിരുന്നു പ്രഭാഷണങ്ങൾ സ്വയം അറിയുക എന്നതാണ് നിങ്ങൾക്ക് സ്വയം നൽകുന്ന ആദ്യത്തെ പ്രധാന ഗുണം അവബോധം അതിനാൽ അത്തരം സ്വയം അവബോധം സൃഷ്ടിക്കുന്നതിന് എഴുത്ത് സഹായകരമാണ് തുടർന്ന് കൂടുതൽ കേൾക്കുമ്പോൾ ഒരാൾ കൂടുതൽ പഠിക്കുന്നു അത് കേൾക്കുന്നതിലൂടെയാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നു ഒരാൾ കൂടുതൽ കേൾക്കുമ്പോൾ ഒരാൾ കൂടുതൽ സംസാരിക്കുന്നു ഒരാൾ കൂടുതൽ ആശയവിനിമയം നടത്തുന്നു ആശയവിനിമയം നടത്തുമ്പോൾ ഒരാൾക്ക് കൂടുതൽ വിജയിക്കാൻ കഴിയും ഇതുപോലെ കേൾക്കുന്നത് നോക്കുക ശ്രവിക്കൽ ഒരു അവിഭാജ്യഘടകമാണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നു ആശയവിനിമയത്തിന്റെ ഭാഗമാണെങ്കിലും അത് വളരെയധികം അവഗണിക്കപ്പെടുന്നു ഫലപ്രദമായ ഒരു ആശയവിനിമയക്കാരനാകാൻ അത് മതിയാകുമെന്ന് ആളുകൾ പൊതുവെ കരുതുന്നു നിങ്ങൾ സംസാരിക്കുകയും തുടർന്ന് എന്തെങ്കിലും എഴുതുകയും ചെയ്താൽ മിക്കപ്പോഴും അവർ ഇത് നഷ്ടപ്പെടുത്തുന്നു ഇത് ഒരുതരം നിഷ്ക്രിയ ആശയവിനിമയമാണെന്ന് ആളുകൾ കരുതുന്നതിനാൽ കേൾക്കുന്നു കേൾക്കുന്നതും ചിലപ്പോൾ ആളുകൾ വായിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നു അതിനാൽ ഇവ ആശയവിനിമയത്തിന്റെ നിഷ്ക്രിയ രൂപമാണെന്നും അതിലും പ്രധാനമായി അവർ കരുതുന്നു അവരുടെ ആശയങ്ങൾ സംസാരിക്കുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണെന്ന് അവർ കരുതുന്നു അത് സജീവമായിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക കേൾക്കുന്നത് ആശയവിനിമയത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെയധികം അവഗണിക്കപ്പെടുന്നു കാരണം കേൾക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നല്ല മാനുഷിക ബന്ധങ്ങൾ വികസിപ്പിക്കാൻ കഴിയൂ ആശയവിനിമയം തന്നെ മനുഷ്യ ബന്ധങ്ങളുമായി കൈകോർക്കുന്നു അതിനാൽ ആശയവിനിമയത്തിന്റെ അളവിലും തീവ്രതയിലും മാത്രമേ പോസിറ്റീവ് ബന്ധങ്ങൾ വികസിക്കാൻ കഴിയൂ ഒരു ബന്ധം കൂടുതൽ തീവ്രമാകുമ്പോൾ കൂടുതൽ ആഴത്തിലുള്ള ആശയവിനിമയം വികസിക്കുന്നു ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ നമുക്ക് നോക്കാം ആശയവിനിമയത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് ആദ്യം ആളുകൾ ചിന്തിക്കുന്നത് സംസാരിക്കുന്നത് മാത്രമാണ് ആശയവിനിമയം എന്നാണ് ആരെങ്കിലും നന്നായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു നല്ല ആശയവിനിമയക്കാരനാണെന്ന് അവർ കരുതുന്നു അതോടൊപ്പം നല്ല സംസാരം നല്ല ആശയവിനിമയമാണെന്ന് അവർ കരുതുന്നു അത് നന്നായി സംസാരിക്കുന്നു മധുരമായി സംസാരിക്കുന്നു ഇത് നല്ല ആശയവിനിമയമാണെന്ന് അവർ കരുതുന്നു ശാന്തരും നിശ്ശബ്ദരുമായ ആളുകളേക്കാൾ നന്നായി സംസാരിക്കുന്ന ആളുകൾ ആശയവിനിമയം നടത്തുന്നു എന്ന തെറ്റിദ്ധാരണയുള്ള മറ്റുള്ളവർ ഉണ്ട് ഇത് വീണ്ടും ഒരു തെറ്റായ ആശയവിനിമയമാണ് കാരണം വളരെ നല്ല ചർച്ചകളിൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് നിശബ്ദനായ വ്യക്തിയാണ് മറ്റേയാൾ കൂടുതൽ സംസാരിക്കുമ്പോൾ ശാന്തനും നിശബ്ദനുമായിരിക്കാനും മറ്റേയാൾ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാനും തുടർന്ന് ഫലപ്രദമായി ആശയവിനിമയം നടത്താനുമുള്ള കഴിവാണിത് അതിനാൽ ശാന്തരും നിശബ്ദരുമായ ആളുകളേക്കാൾ സംസാരിക്കുന്ന ആളുകൾ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തുന്നു എന്ന തെറ്റായ ധാരണയാണിത് അപ്പോൾ ഒരു നല്ല പ്രഭാഷകനാകാൻ നിങ്ങൾ ഒരു ശ്രോതാവാകേണ്ടതില്ലെന്ന് ആളുകൾ കരുതുന്നു അതിനാൽ നിങ്ങൾ സംസാരിക്കുന്നത് പരിശീലിക്കുക നിങ്ങളുടെ പദാവലി വികസിപ്പിക്കുക നിങ്ങളുടെ ഭാഷാ വൈദഗ്ദ്ധ്യം വികസിപ്പിക്കുക പക്ഷേ നിങ്ങൾ ഒരു ശ്രോതാവാകേണ്ടതില്ലെന്ന് അവർ കരുതുന്നു എന്നാൽ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ഒരു നല്ല പ്രഭാഷകനാകാൻ കഴിയില്ല കേൾക്കുന്നതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും നിങ്ങൾ മനസ്സിലാക്കണം ബുദ്ധിയുള്ളവർക്ക് മാത്രമേ കേൾക്കാൻ കഴിയൂ എന്ന് ആളുകൾ കരുതുന്നു അതിനാൽ അത്ര വിദ്യാസമ്പന്നരല്ലാത്ത ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ലെന്ന് അവർ കരുതുന്നു ഇത് ശരിയല്ല കാരണം സജീവമായി കേൾക്കുന്നത് ഒരു സംസ്കാര സ്വഭാവമാണ് അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശ്രവണത്തിന്റെ കാര്യത്തിൽ കഴിവുകൾ വികസിപ്പിക്കാനും തുടർന്ന് ഫലപ്രദമായ ഒരു വ്യക്തിയായി മാറാനും കഴിയും ശ്രോതാക്കൾ കേൾക്കുന്നതിനെക്കുറിച്ച് ആളുകൾക്ക് ഉള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് അവർ സംസാരിക്കുന്നതിനെ താരതമ്യം ചെയ്യുന്നത് കേൾക്കുന്നത് കേൾക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സംസാരിക്കുന്നതെന്ന് അവർ കരുതുന്നു ഇപ്പോൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും ഒരുപോലെ പ്രധാനമാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത ഫലപ്രദമായ ആശയവിനിമയം അപ്പോൾ മറ്റൊരു തെറ്റിദ്ധാരണയാണ് സംസാരിക്കുന്നത് ഊർജ്ജം ഉപയോഗിക്കുന്നു എന്നതല്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നു എന്ന മറ്റൊരു വലിയ തെറ്റിദ്ധാരണയാണിത് എന്നാൽ കേൾക്കുമ്പോഴല്ല എന്നാൽ സജീവമായ ശ്രോതാക്കൾ ഒരു പ്രഭാഷകനെയോ ജോഗറെയോ പോലെ ഊർജ്ജം ചെലവഴിക്കുന്നു നിരവധി വിദേശ സർവകലാശാലകളിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട് തുടർന്ന് അവർ എങ്ങനെ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു സജീവമായ ഒരു ശ്രോതാവ് വളരെയധികം ഊർജ്ജം ഉപയോഗിക്കുന്നു അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ സജീവമായ ശ്രോതാവിനെക്കുറിച്ചോ മറ്റോ ഞാൻ സംസാരിക്കും പക്ഷേ ശരിയാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് സജീവമായ ശ്രോതാവ് വളരെ ഫലപ്രദമായ ഒരു ശ്രോതാവാണെന്നും അവൻ അല്ലെങ്കിൽ അവൾ ശ്രവണ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ തൻ്റെ തലച്ചോറിനെ പരമാവധി ഉപയോഗിക്കുകയും തുടർന്ന് പൂർണ്ണമായി ചിന്തിക്കുകയും ചെയ്യുന്നുവെന്നും ആണ് ഇപ്പോൾ സജീവമായ ശ്രോതാക്കൾ ഒരു പ്രഭാഷകനെപ്പോലെ ഊർജ്ജം ചെലവഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ജോഗറെപ്പോലെ അവർ അത് പറയുന്നു അതിനാൽ അവർ ജോഗറുമായും സജീവമായ ഒരു ശ്രോതാവുമായും താരതമ്യം ചെയ്തു അതേ രീതിയിൽ ഊർജ്ജം കൂടുതലോ കുറവോ ചെലവഴിക്കാൻ അവർക്ക് കഴിയുമെന്ന് അവർ കണ്ടെത്തി കേൾക്കുന്നത് അബോധാവസ്ഥയിലുള്ള ഒരു പ്രക്രിയയാണ് എന്നതാണ് മറ്റൊരു തെറ്റിദ്ധാരണ എന്നാൽ വസ്തുത കേൾക്കുന്നത് ഒരു സജീവമായ മാനസിക പ്രക്രിയയാണ് കേൾവി ഒരു സ്വമേധയാ ഉള്ള പ്രവർത്തനമാണ് അതിനാൽ വരാനിരിക്കുന്ന സ്ലൈഡിൽ ഞാൻ ഇവ രണ്ടിനെക്കുറിച്ചും ചർച്ച ചെയ്യും സംസാരിക്കുന്നവർക്ക് അവരുടെ പ്രേക്ഷകരെ 100 ശതമാനവും കേൾപ്പിക്കാൻ കഴിയും ഇത് മറ്റൊരു വലിയ തെറ്റിദ്ധാരണയാണ് കാരണം പ്രേക്ഷകർക്ക് തന്നെ സ്പീക്കറെ കേൾക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ സ്പീക്കറുകൾക്ക് അവരുടെ പ്രേക്ഷകരെ ശരിക്കും കേൾപ്പിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആളുകളെ നിർബന്ധിക്കാൻ കഴിയില്ല നിങ്ങളുടെ ആശയവിനിമയ വൈദഗ്ധ്യത്തിൽ നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും അവർ ശരിക്കും ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെന്ന് അവർ കരുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ നിർബന്ധിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് അവരെ ഒറ്റയ്ക്ക് കേൾപ്പിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് താൽപ്പര്യം സൃഷ്ടിക്കേണ്ടിവന്നേക്കാം അതെല്ലാം വ്യത്യസ്തമായ കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവരെ കേൾപ്പിക്കാൻ കഴിയില്ല കേൾവിയുടെ കാര്യമോ അത് ശ്രദ്ധിക്കു ന്നതിന് തുല്യമാണോ ശ്രദ്ധിക്കു ന്നതും കേൾക്കുന്നതും ഒന്നുതന്നെയാണെന്ന് പലരും കരുതുന്നു ഇപ്പോൾ ശ്രധിക്കുക എന്നത് കേൾക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായതിനാൽ ഇത് ഒരു തെറ്റായ ധാരണയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേൾക്കുന്നത് അടിസ്ഥാനപരമായി ഒരു ശാരീരിക പ്രവർത്തനമാണ് അതേസമയം കേൾക്കുന്നത് ഒരു മാനസിക പ്രവർത്തനമാണ് ഉദാഹരണത്തിന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ വീഴുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ ചെവിയിൽ സ്പർശിക്കുന്നു അതിനാൽ ഒരുതരം ശബ്ദ സംവേദനക്ഷമത ഉണ്ടാക്കുന്നു അത്രയേയുള്ളൂ അതിനാൽ നിങ്ങൾ ട്രാഫിക്കിലായിരിക്കുമ്പോൾ നിങ്ങൾ ഹോൺ ശബ്ദം കേൾക്കുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് കേൾക്കാനും ഫാൻ ശബ്ദം കേൾക്കാനും നിങ്ങൾ ഫാൻ ശബ്ദം കേൾക്കാനും തുടർന്ന് ഉറങ്ങാനും കഴിയും പക്ഷികൾ ഉണ്ടാക്കുന്ന ശബ്ദവും പക്ഷികളുടെ കിലുക്കലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും അപ്പോഴും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയും അതിനാൽ ഈ കേൾവി മിക്കപ്പോഴും മറ്റേതെങ്കിലും പ്രവർത്തനത്തെ ബാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ കാർ ഓടിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നുണ്ടാകാം അതിനാൽ ഇത് നിങ്ങളെ അത്രയൊന്നും ബാധിക്കില്ല ശബ്ദങ്ങൾ നിങ്ങളുടെ ചെവിയിൽ വീഴുമ്പോൾ പോലും നിങ്ങളുടെ തലച്ചോറിനെ അത് ചെയ്യാൻ അനുവദിക്കാം എന്നാൽ ഈ കാഴ്ചയിൽ കേൾവി മാത്രമല്ല കേൾവി എന്നതിനേക്കാൾ കൂടുതൽ കേൾവിയും ഉൾപ്പെടുന്നു കൂടാതെ കേൾവി എന്നതിനേക്കാൾ കൂടുതൽ സ്വീകരണവും ഉൾപ്പെടുന്നു അതിനാൽ ആശയങ്ങളുടെ സ്വീകരണം വരുന്ന നോൺ വെർബൽ സൂചകങ്ങളുടെ സ്വീകരണം സെലക്ഷൻ അതിനാൽ ഒരു ഫിൽട്ടറിംഗ് നടക്കുന്നു നിങ്ങൾ നൽകുന്ന എല്ലാ ആശയങ്ങളും എനിക്ക് ലഭിക്കുന്നു എന്നാൽ ഞാൻ തീരുമാനിക്കുന്നു ഇത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു തുടർന്ന് ഞാൻ ചില ആശയങ്ങൾ രേഖപ്പെടുത്തുന്നു അതിനാൽ ഞാനും തിരഞ്ഞെടുക്കുന്നു ഞാൻ എല്ലാം കേൾക്കുന്നില്ല ഉദാഹരണത്തിന് ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ തുടർന്ന് എല്ലാ അറിയിപ്പുകളും ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവയിൽ മിക്കതും ഞാൻ കേൾക്കുന്നു പക്ഷേ ആ പ്രത്യേക സമയത്ത് ആ പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടാൻ പോകുന്ന എന്റെ ട്രെയിനിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ കേൾക്കുന്നു അതിനാൽ ഞാനും തിരഞ്ഞെടുക്കുന്നു തുടർന്ന് തിരഞ്ഞെടുത്ത ശേഷം ഞാൻ ഓർഗനൈസ് ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ക്ലാസ് പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പങ്കെടുക്കുമ്പോൾ അത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടതാണ് ആർ പൊതു പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുന്നു നിങ്ങൾ വിവരങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം പ്രധാനപ്പെട്ടവ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും തുടർന്ന് നിങ്ങൾ ക്രമീകരിക്കുകയും തുടർന്ന് നിങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ബന്ധിപ്പിക്കുകയും നിങ്ങൾ സംഘടിപ്പിച്ച ആശയങ്ങൾ സംയോജിപ്പിക്കുകയും തുടർന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക തുടർന്ന് അർത്ഥം നേടാൻ ശ്രമിക്കുക നിങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുക മാത്രമല്ല ആ വ്യക്തി യഥാർത്ഥത്തിൽ പണമുണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ശരിക്കും സത്യം പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ സ്വാധീനമുള്ള ചില ആശയങ്ങൾ നൽകുകയോ ചെയ്യുക അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങൾ ഒരു പ്രഭാഷണത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഉറപ്പില്ല നിങ്ങൾക്ക് വ്യക്തത ചോദിക്കാം നിങ്ങൾക്ക് ഇപ്പോഴും ചില കാര്യങ്ങളിൽ ഉറപ്പുണ്ട് പക്ഷേ ഇത് ഇതിൽ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചതുപോലെ ഈ ദിശയിലേക്ക് അത് നീങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ വീണ്ടും നിങ്ങൾ പ്രതികരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കേൾക്കുമ്പോൾ നിരവധി മാനസിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു നല്ല ശ്രോതാവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആദ്യപടി എന്താണ് ഒരു നല്ല ശ്രോതാവാകാനുള്ള ആദ്യപടി മനസ്സ് തുറന്നിടുക എന്നതാണ് അതിനാൽ മനസ്സ് തുറന്നിരിക്കണം റോബർട്ട് ഷുള്ളർ തന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നതുപോലെ മനസ്സ് ഒരു പാരച്യൂട്ട് പോലെയാണ് അത് തുറന്നിരിക്കുമ്പോൾ മാത്രമേ അത് പ്രവർത്തിക്കൂ അതിനാൽ ഇത് ഒരു പാരച്യൂട്ട് പോലെയാണ് അത് തുറക്കുമ്പോൾ മാത്രമേ പ്രവർത്തിക്കൂ നിങ്ങൾ മനസ്സിനെ അടച്ചുവെക്കുകയാണെങ്കിൽ അത് പ്രവർത്തനരഹിതമാകും അത് ഒട്ടും പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സ് തുറന്നിരിക്കേണ്ടത് എന്നതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ ശ്രവണത്തെക്കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട അവസാന പാഠത്തോടെ ഞാൻ അവസാനിപ്പിക്കും ഈ ചെറിയ സംഭവം നോക്കൂ കാലിഫോർണിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് മെഡിക്കൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ മിസ്റ്റർ ആഗ്ന്യൂ താഴെപ്പറയുന്നവയെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചു അധ്യാപകർ ഒരുതരം സാഹചര്യം നൽകുകയും വിദ്യാർത്ഥികൾ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു അതിനാൽ ഇതാണ് സാഹചര്യം പിതാവിന് സിഫിലിസും മാതാവിന് ക്ഷയരോഗവുമുണ്ട് അവർക്ക് നാല് കുട്ടികളുണ്ട് ആദ്യത്തേത് അന്ധൻ രണ്ടാമത്തേത് മരിച്ചു മൂന്നാമത്തേത് ബധിരനും ഊമനും ആയിരുന്നു നാലാമത്തെയാൾക്ക് ക്ഷയരോഗമുണ്ടായിരുന്നു അമ്മ അഞ്ചാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു ഗർഭച്ഛിദ്രം നടത്താൻ മാതാപിതാക്കൾ തയ്യാറാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് അതിനാൽ നിങ്ങൾ കേൾക്കുമ്പോൾ വിട്ടുമാറാത്ത രോഗമുള്ള ഒരു കേസ് നിങ്ങൾക്ക് നൽകുന്നു തുടർന്ന് വിട്ടുമാറാത്ത മരണമുണ്ട് അതിനാൽ ഇപ്പോൾ ഇത് അഞ്ചാമത്തെ കുട്ടിയാണ് തുടർന്ന് മാതാപിതാക്കൾക്കായി തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു തീർച്ചയായും നിങ്ങളിൽ മിക്കവരും ചിന്തിച്ചതുപോലെ തുടർന്ന് നിങ്ങൾ പ്രതികരിച്ച രീതി മിക്ക വിദ്യാർത്ഥികളും ഗർഭച്ഛിദ്രത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു കാരണം മറ്റ് കുട്ടികൾ വളരുകയും പിന്നീട് അവർ മരിക്കുകയും ചെയ്ത വിട്ടുമാറാത്ത അവസ്ഥകൾ കാരണം കുട്ടി തീർച്ചയായും അതിജീവിക്കാൻ കഴിയില്ലെന്ന് അവർ കരുതി എന്നാൽ മിസ്റ്റർ ആഗ്ന്യൂ അവരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞു അഭിനന്ദനങ്ങൾ നിങ്ങൾ ബീഥോവനെ കൊന്നു അറിയാത്തവർക്കായി ബീഥോവൻ ബധിരനായ സംഗീതസംവിധായകനും 8 വയസ്സുള്ളപ്പോൾ പിയാനിസ്റ്റായി തന്റെ ആദ്യ പൊതുപരിപാടി നൽകിയ ഒരു ബാല പ്രതിഭയുമാണ് അപ്പോൾ മാതാപിതാക്കൾ ഈ കുട്ടിയെ ഗർഭച്ഛിദ്രം ചെയ്യാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമായിരുന്നു ലോകത്തിന് ഒരു സംഗീത പ്രതിഭയെ നഷ്ടപ്പെടുമായിരുന്നു അതിനാൽ മുൻവിധികളില്ലാതെ കേൾക്കാൻ നിങ്ങൾ പഠിക്കണം എന്നതാണ് ഇതിൽ നിന്നുള്ള പാഠം മനസ്സ് തുറന്നിടുക മുൻവിധികളൊന്നുമില്ലാതെ ശ്രദ്ധിക്കുക മുൻവിധികൾ എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻകൂട്ടി സങ്കൽപ്പിച്ച ചിന്തകൾ ഏതെങ്കിലും തരത്തിലുള്ള മുൻധാരണകൾ ചില കാര്യങ്ങൾ കാണപ്പെടുന്ന രീതി കാരണം ആരെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾ മുൻകൂട്ടി സങ്കൽപ്പിച്ച ഒരു ധാരണ രൂപപ്പെടുത്തുന്നു പിന്നെ ആ വ്യക്തിയുമായുള്ള ആശയവിനിമയം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതിനുമുമ്പുതന്നെ നിങ്ങൾ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചോ പെരുമാറ്റത്തെക്കുറിച്ചോ പ്രവൃത്തിയെക്കുറിച്ചോ നിങ്ങൾ തീരുമാനമെടുക്കുകയോ ചെയ്യുന്നു ഇത് ഒരു നല്ല ആശയവിനിമയക്കാരനാകുന്നതിൽ വളരെ മോശമാണ് അതിനാൽ ഇതിന്റെ അവസാനം ഇത് മനസ്സിൽ വയ്ക്കുക മുൻവിധികളില്ലാതെ കേൾക്കുക നിങ്ങളുടെ മനസ്സ് തുറന്നിരിക്കാൻ ശ്രമിക്കുക അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഫലപ്രദമായ ശ്രോതാവോ സജീവ ശ്രോതാവോ ആകാമെന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ഞാൻ തുടരട്ടെ ഇതോടെയാണ് ഈ ആഴ്ചയിലെ ആദ്യ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നത് നന്ദി നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു